ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കൺവെർട്ടറുകൾ ഫ്ലൈബാക്ക് കൺവെർട്ടറാണ് വാണിജ്യ ഉൽപ്പന്നങ്ങളിൽ നിങ്ങൾ കണ്ടെത്തുന്ന ഏറ്റവും ജനപ്രിയമായ കൺവെർട്ടറുകളിൽ ഒന്നാണിത് ഇത് ഒരു ബക്ക് ബൂസ്റ്റ് ഡിറൈവ്ഡ് കൺവെർട്ടർ ആണ് നമുക്ക് ബക്ക് ബൂസ്റ്റ് സർക്യൂട്ട് നോക്കി തുടങ്ങാം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ബക്ക് ബൂസ്റ്റ് സർക്യൂട്ട് പരിചിതമായിരിക്കണം നിങ്ങൾ ഇത് പഠിക്കുകയും ഇത് സിമുലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ ഫോർവേഡ് കൺവെർട്ടറിൽ ചെയ്തതുപോലെ ഈ സ്വിച്ച് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ സ്വിച്ച് റിട്ടേൺ റെയിലിലേക്ക് തള്ളാനും പോസിറ്റീവ് റെയിലായ ടോപ്പ് റെയിലിനെ ഒരു കണ്ടക്ടർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കാനും ആഗ്രഹിക്കുന്നു ആദ്യം നമുക്ക് അത് ചെയ്യാം ഞങ്ങൾ ഇതുപോലെ നെഗറ്റീവ് റെയിലിലേക്ക് സ്വിച്ച് നീക്കും ഇപ്പോൾ ഇതൊരു ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറാണ് ഫോർവേഡ് കൺവെർട്ടറിലെന്നപോലെ ഈ ബാറ്ററി നീക്കംചെയ്ത് ഒരു ലേബൽ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് അത് നീക്കം ചെയ്യാം ഞാൻ ഇവിടെ ഒരു ലേബൽ സ്ഥാപിക്കാം അതിനെ Vin ലേബൽ എന്ന് വിളിക്കും ഈ ഉപകരണം തിരിക്കുക ഞാൻ ഇപ്പോൾ ഈ ഉപകരണത്തിന്റെ സ്ഥാനം ഈ രീതിയിൽ തിരിക്കാം എന്നിട്ട് ഇടതുവശത്തേക്ക് ചൂണ്ടി നിങ്ങൾക്ക് ഗേറ്റ് സർക്യൂട്ട് ഈ വശത്ത് വയ്ക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടക്ടർ നീക്കം ചെയ്യാം ബക്ക് കൺവെർട്ടർ സർക്യൂട്ടിന്റെ സ്ഥാനമാറ്റം പൂർത്തിയാക്കുന്ന ഒരു ഗ്രൌണ്ട് ഇവിടെ സ്ഥാപിക്കാം സർക്യൂട്ട് പുനഃസ്ഥാപിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ നമുക്ക് ഐസൊലേഷൻ ഉൾപ്പെടുത്തണം ഈ പോയിന്റിൽ ഐസൊലേഷൻ ഉൾപ്പെടുത്താം ഇൻഡക്ടറിൽ സ്വിച്ച് ഓണായിരിക്കുമ്പോൾ ഈ രീതിയിൽ ചാർജ്ജ് ആകുമ്പോൾ ബക്ക് കൺവെർട്ടറിന്റെ പ്രവർത്തനം ഇപ്പോഴും സമാനമായിരിക്കും സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഇൻഡക്ടർ ഔട്ട്പുട്ടിലൂടെ ഫ്രീ വീൽ ചെയ്യും ഇനി നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ഇൻഡക്ടർ ഉണ്ട് അങ്ങനെ ഉള്ള ഇൻവേർറ്ററിനു നമുക്ക് കപ്ലിങ് നടത്താം അങ്ങനെ നമുക്ക് ഇവിടെ ഒരു ഒറ്റപ്പെടലിനെ തടസ്സപ്പെടുത്താനും ഇൻഡക്ടറിന്റെ ഫ്രീ വീലിംഗ് പ്രവർത്തനം സെക്കൻഡറിയിലൂടെ സംഭവിപ്പിക്കാനും കഴിയും ഞാൻ ഇവിടെ പ്ലോട്ടർ ക്ലിയർ ചെയ്യാം പ്ലോട്ടർ ക്ലിയർ ചെയ്തതിന് ശേഷം ഇത് എങ്ങനെ കാണപ്പെടുന്നു ഗാൽവാനിക്കലി ഐസൊലേറ്റഡ് പ്രകാരം ഇതൊരു ട്രാൻസ്ഫോർമർ അല്ല ഇതൊരു ഇൻഡക്ടറാണെന്ന് മനസിലായി ഇത് ഒരു നിമിഷത്തിനുള്ളിൽ ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം എന്നാൽ അതിനുമുമ്പ് നമുക്ക് ഡോട്ട് പോളാരിറ്റികൾ നൽകണം ഈ ഡോട്ട് ഇവിടെ സ്ഥാപിക്കട്ടെ ഞാൻ ഇവിടെ ഒരു ഡോട്ട് കൂടി സ്ഥാപിക്കാം BJT ഓൺ ആകുമ്പോൾ ഇൻഡക്ടറിൽ ചാർജ് കയറും ഡോട്ട് പോസിറ്റീവും ആയിരിക്കുമ്പോൾ ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും കാരണം ഇത് ഇതുപോലെ യഥാക്രമം പോസിറ്റീവ് ആണ് ഡയോഡ് പൂർണ്ണമായും റിവേഴ്സ് ബയേസ്ഡ് ആയതിനാൽ ഇത് പോസിറ്റീവ് ആണ് ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇൻഡക്ടറിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം ഫ്രീ വീൽ ആയി മാറും പോളാരിറ്റിയുടെ ഒരു റിവേഴ്സ് ഉണ്ട് നോൺ ഡോട്ട് എൻഡ് പോസിറ്റീവും ഡോട്ട് എൻഡ് നെഗറ്റീവും ആയി മാറുന്നു ഈ രീതിയിൽ ഡയോഡിനെയും ഫോർവേഡ് ബയസ് ചെയ്യുന്നതുവരെ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇതുപോലെ ഫ്രീ വീലും ചെയ്യും ഇത് ഇൻഡക്ടൻസ് എനർജിയെ ഔട്ട്പുട്ടിലേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനം നൽകും അതിനാൽ ഓൺ സ്റ്റേറ്റിൽ ഇൻഡക്ടറിനുള്ളിൽ ചാർജ്ജ് ചെയ്ത ഊർജ്ജം ഓഫ് സ്റ്റേറ്റിൽ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്നു ഇത് ഒരു ഡയറക്ട് ട്രാൻസ്ഫോർമർ പോലെയല്ല പ്രവർത്തിക്കുന്നത് ട്രാൻസ്ഫോർമറിന്റെ കാര്യത്തിൽ പ്രൈമറിയിൽ ഒരു കറന്റ് ഒഴുകുമ്പോൾ സെക്കൻഡറിയിൽ ഒരു കറന്റ് ഒഴുകുകയും പവർ ഫ്ലോ തൽക്ഷണം സംഭവിക്കുകയും ചെയ്യും അതിനാൽ ഇത് ഒന്നായി പ്രവർത്തിക്കുന്നതിനാൽ ഇത് ഒരു ഇൻഡക്ടറായി രൂപകൽപ്പന ചെയ്തിരിക്കണം ഇപ്പോൾ ഞാൻ ഈ സർക്യൂട്ടിന്റെ ഈ സെക്കൻഡറി ഭാഗം ഫ്ലിപ്പുചെയ്യാൻ പോകുന്നു അതായത് പ്ലസ് ദൃശ്യമാകും അങ്ങനെ നമ്മൾ പതിവുപോലെ താഴെയുള്ള നെഗറ്റീവിന് മുകളിൽ പോസിറ്റീവ് ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ സർക്യൂട്ടിന്റെ ഈ ഭാഗം ഞാൻ ഇതുപോലെ മറിക്കും ഇതുപോലെ ഒരു നേരിട്ടുള്ള ഫ്ലിപ്പും നിങ്ങൾക്ക് കാണാം എന്നിട്ടു ഇതുപോലെ നമുക്ക് വക്കുകയും ചെയ്യാം സർക്യൂട്ട് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ഒരു പ്രധാന മാറ്റം കൂടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ഡയോഡ് ഇവിടെ മുകളിലെ റെയിലിലേക്ക് മാറ്റുന്നു താഴെയുള്ള റെയിൽ ഒരു പ്ലെയിൻ കണ്ടക്ടറാണ് ഓപ്പറേഷനിൽ ഒരു മാറ്റവുമില്ലെന്ന് നിങ്ങൾക്ക് കാണാം ഇനി നമുക്ക് ഉദാഹരണമായി പറയാം ഇൻഡക്ടൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ സ്വിച്ച് ഓണായിരിക്കുമ്പോൾ ഡോട്ട് എൻഡ് പോസിറ്റീവ് ആയിരിക്കും ഇവിടെ ഡോട്ട് എൻഡ് പോസിറ്റീവ് ആണ് ഡയോഡ് റിവേഴ്സ് ബയസ് ആണ് കാരണം ഇത് പോസിറ്റീവ് ഡോട്ട് എൻഡ് ആണ് ഇവിടെ ഈ ഡയോഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ് റിവേഴ്സ് ബയസും ഓഫും ആണ് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ പോളാരിറ്റിയുടെ റിവേഴ്സ് നടക്കും നോൺ ഡോട്ട് എൻഡ് പോസിറ്റീവ് ആണ് ഇത് ഈ രീതിയിൽ ഡയോഡിലൂടെ ഒരു ഫ്രീ വീലിംഗ് കറന്റ് ഉണ്ടാക്കുവാൻ ശ്രമിക്കും പോസിറ്റീവ് റെയിലിൽ ഈ ദിശയിൽ ഡയോഡ് ഇടുന്നത് ദോഷകരമല്ല ഞാൻ അത് നീക്കം ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത് ഈ ദിശയിൽ സ്ഥാപിക്കുകയും താഴെയുള്ള റെയിലിൽ കണക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യാം ഇതാണ് അവസാന സർക്യൂട്ട് ഇതാണ് ഫ്ലൈബാക്ക് കൺവെർട്ടർ സർക്യൂട്ട് L ഒരു ഇൻഡക്ടറാണ് പ്രൈമറി ഇൻഡക്ടർ രൂപകൽപ്പന ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ടേൺസ് റേഷ്യോ ഇടുകയും ടേൺസ് റേഷ്യോയെ ആശ്രയിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോറിലേക്കു വേണ്ട തിരിവുകളുടെ എണ്ണം എത്രയാണെന്നും കണ്ടുപിടിക്കുക ചിത്രത്തിൽ ഒരു ടേൺസ് റേഷ്യോ വരുന്നുണ്ടെന്ന് സൂചിപ്പിക്കാൻ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ 1N എന്ന് എഴുതാം ഇങ്ങനെ ആണ് ഫ്ലൈബാക്ക് കൺവെർട്ടർ സജ്ജീകരിച്ചിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഫ്ലൈബാക്ക് കൺവെർട്ടറിന്റെ പ്രവർത്തനവും വേവ് ഫോമുകളും ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിന്റേത് പോലെയായിരിക്കും ആകെ ഉള്ള ഒരു വ്യത്യാസം ഈ അധിക തിരിവുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട് എന്നതാണ് വിവിധ പോയിന്റുകളിലെ എല്ലാ തരംഗ രൂപങ്ങളും ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിൽ ചർച്ച ചെയ്തതിന് സമാനമായിരിക്കും നിങ്ങൾ 1 1 നേക്കാൾ 1 N നൽകിയാൽ എല്ലാ ഘടകത്തിനും ഒരേ തരംഗ രൂപങ്ങൾ ഉപയോഗിക്കാം ഇവിടെ N മാത്രമാണ് വ്യത്യാസം ഉദാഹരണത്തിന് നമുക്ക് ഈ N ഒരു ജനറിക് വേരിയബിൾ ഉണ്ടെന്ന് കരുതുക ഇപ്പോൾ നിങ്ങൾക്ക് Vo ഉണ്ടെങ്കിൽ ഇത് ഫ്രീ വീലിംഗ് ആയിരിക്കുമ്പോൾ ഇത് ഓഫായിരിക്കുമ്പോൾ ഇത് ഇതുപോലെ ഫ്രീ വീലിംഗ് ആണ് കാരണം നോൺ ഡോട്ട് ഏൻഡ് പോസിറ്റീവ് ആണ് Vo നേരിട്ട് സെക്കൻഡറിയിലും പ്രൈമറിയിലും കണക്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് Von ഇവിടെ ദൃശ്യമാകും നോൺ ഡോട്ട് എൻഡ് പോസിറ്റീവ് പ്ലസ് Vin എന്നത് ട്രാൻസിസ്റ്ററിലുടനീളം നിങ്ങൾ കാണുന്ന വോൾട്ടേജായിരിക്കും അതിനാൽ ട്രാൻസിസ്റ്ററിന് Vin Vo n നെ നേരിടാൻ കഴിയണം അത് ഈ ഉപകരണത്തിന്റെ റേറ്റിംഗ് ആയിരിക്കും അല്ലാത്തപക്ഷം മറ്റെല്ലാ റേറ്റിംഗുകളും ബക്ക് ബൂസ്റ്റ് തരംഗ രൂപങ്ങൾക്കനുസരിച്ചായിരിക്കും ഇതാണ് ഫ്ലൈബാക്ക് കൺവെർട്ടർ ടോപ്പോളജി വ്യക്തത ഉറപ്പാക്കാൻ നമുക്ക് ചില തരംഗ രൂപങ്ങൾ നോക്കാം എനിക്ക് രണ്ട് സമയ കാലയളവുകൾ ഉണ്ടെന്ന് പറയാം ഒന്ന് ട്രാൻസിസ്റ്റർ ഓണായിരിക്കുമ്പോൾ dTs പിരീഡ് മറ്റൊന്ന് ട്രാൻസിസ്റ്റർ ഓഫായിരിക്കുമ്പോൾ Ts പിരീഡ് ഇത് ട്രാൻസിസ്റ്ററിന്റെ ഓൺ സമയമാണെന്നും ഇത് ട്രാൻസിസ്റ്റർ Q യുടെ ഓഫ് സമയമാണെന്നും പറയാം ഈ സമയ ഫ്രെയിമുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം നിലവിലെ Iq ഇടാൻ ശ്രമിക്കാം ഇപ്പോൾ Iq ഇതുപോലെ കാണപ്പെടും ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കുമ്പോൾ ട്രാൻസിസ്റ്ററിലൂടെ മാത്രം ഒഴുകുന്ന ഇൻഡക്ടർ കറന്റിന്റെ ബക്ക് ഭാഗം മാത്രമേ കാണു ഫ്ലൈബാക്ക് കൺവെർട്ടറിന്റെ കാര്യത്തിൽ ഈ ഇക്വലന്റ് ഫ്ലാറ്റ് ടോപ്പ് മൂല്യം ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെയാണ് അത് Iin ആണ് ഈ മൂല്യത്തിന്റെ ശരാശരിയും Io ശരാശരിയും കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് അതായത് ട്രാൻസിസ്റ്റർ ഓഫായിരിക്കുമ്പോൾ സെക്കൻഡറിയിലൂടെ ഒഴുകുന്നത് Io ശരാശരി n n എന്നത് ടേൺസ് അനുപാതം ആണ് nIo ഇതിന്റെ ശരാശരി Iin ശരാശരി ആയിരിക്കും ഫ്ലാറ്റ് ടോപ്പ് മൂല്യം Iin nIo ആയിരിക്കും ഇനി ഈ പോയിന്റിൽ മറ്റൊരു പ്രധാന തരംഗരൂപം നോക്കുകയാണെങ്കിൽ അതാണ് ട്രാൻസിസ്റ്ററിലുടനീളം ഈ ഘട്ടത്തിലുള്ള Vq തരംഗരൂപം ട്രാൻസിസ്റ്റർ ഓണായിരിക്കുന്ന സമയത്ത് ഇത് ചാലകാവസ്ഥയാണ് ഇപ്പോൾ ട്രാൻസിസിറ്റർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഡയോഡ് ഫ്രീ വീലിംഗ് ആകും ആ ഇൻഡക്റ്റർ ഊർജ്ജം ഫ്രീ വീലിലേക്ക് പോകുകയും ഡയോഡിലൂടെ കപ്പാസിറ്ററിലേക്ക് തള്ളുകയും ചെയ്യും ഡയോഡ് കണ്ടക്ഷൻ നടത്തുമ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് Vo ആണ് Vo സെക്കൻഡറിയിൽ ഉടനീളം കാണാം നോൺ ഡോട്ട് എൻഡ് പോസിറ്റീവ് ആണ് പ്രൈമറി വശത്ത് ഈ L ൽ ഉടനീളം നോൺ ഡോട്ട് എൻഡ് പോസിറ്റീവ് ദൃശ്യമാകും പ്രാഥമിക വൈൻഡിംഗിലുടനീളം Vo n ആണ് അതിനാൽ Vq ഒരു വോൾട്ടേജ് കാണും അത് Vin Vo n എന്ന് പറയാം ഇതിലുടനീളവും അത് ദൃശ്യമാകും സെക്കൻഡറി വൈദ്യുതധാര ഡയോഡിലൂടെ കടന്നുപോകും തീർച്ചയായും ഈ ഭാഗത്ത് മാത്രമേ ഒഴുകുകയുള്ളൂ ഞാൻ അതിനെ ഇവിടെ സൂചിപ്പിക്കും ഞാൻ ഗ്രാഫ് y ആക്സിസ് ലൈനുകൾ നീട്ടുകയും ദ്വിതീയ വശം അല്ലെങ്കിൽ ഡയോഡ് കറന്റ് ഈ സമയത്ത് മാത്രമേ ഒഴുകുകയുള്ളൂ എന്ന് കാണിക്കുകയും ചെയ്യും ഇവിടെയുള്ള D യിലൂടെ ഒഴുകുന്ന കറന്റായിരിക്കും ഇത് നമ്മൾ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ കേസിൽ ചർച്ച ചെയ്തതുപോലെ ഇതിന്റെ ശരാശരി Io ആയിരിക്കണം കപ്പാസിറ്റർ സീറോ ആവറേജ് കറന്റ് വലിക്കും ഈ ഫ്ലാറ്റ് ടോപ്പ് മൂല്യത്തിന് തുല്യമായ ഫ്ലാറ്റ് ടോപ്പ് മൂല്യം ദ്വിതീയ വശം പ്രതിഫലിപ്പിക്കുന്ന Io യും Iin n കൂടി കൂട്ടുന്നതായിരിക്കും ഡയോഡ് കറന്റ് ഇങ്ങനെയായിരിക്കും ഈ തരംഗ രൂപങ്ങളിൽ നിന്നുള്ള റേറ്റിംഗുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് റേറ്റിംഗുകൾ കണ്ടെത്താനും ഫ്ലൈബാക്ക് കൺവെർട്ടറിന്റെ ഘടകങ്ങളും കൂടാതെ gschem ലെ ഫ്ലൈബാക്ക് കൺവെർട്ടറിന്റെ സ്കീമാറ്റിക് ഉൾപ്പെടെ തിരഞ്ഞെടുക്കാനും കഴിയും നിങ്ങൾക്ക് അത് അനുകരിക്കാനും അത് നടപ്പിലാക്കാനും കഴിയും ഇതാണ് സ്കീമാറ്റിക് ഇവിടെ നിങ്ങൾക്ക് ഒരു സ്വിച്ചും ഫ്ളൈബാക്ക് കൺവെർട്ടറും ഉണ്ട് നോൺ ഡോട്ട് എൻഡിൽ നിന്ന് ഞാൻ ഇത് ഡയോഡിന്റെ ആനോഡുമായി ബന്ധിപ്പിച്ച് ഒരു റെസിസ്റ്റൻസ് സീരീസ് ഇടുന്നു കാരണം നിങ്ങൾ ഇത് ഇട്ടില്ലെങ്കിൽ സംഖ്യാ അസ്ഥിരത പ്രശ്നങ്ങൾ കൺവേർജൻസ് പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകും ഈ കപ്പാസിറ്റൻസിനെ ഇത് ചാർജ് ചെയ്യും ഇതാണ് ലോഡ് നിങ്ങൾക്ക് ഇത് വളരെ ദൈർഘ്യമേറിയ കാലയളവിലേക്ക് അനുകരിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് കൺവെർജൻസ് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഫ്ലൈബാക്ക് സാധാരണയായി ക്ലോസ് ലൂപ്പിൽ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് കാരണം ലോഡ് പര്യാപ്തമല്ലെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി സൈക്കിൾ വലുതാണെങ്കിൽ കപ്പാസിറ്റൻസിന് ഡിസ്ചാർജ് പാത്ത് ഉണ്ടാകില്ല ചാർജ് ഒരു പരിധിക്കുള്ളിലാണെന്നും സർക്യൂട്ടിന്റെ ട്രാൻസ്ഫോർമർ പൂരിതമല്ലെന്നും കാണാൻ നിങ്ങൾ ഡ്യൂട്ടി സൈക്കിൾ നിയന്ത്രിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ലീനിയർ മോഡൽ ഉപയോഗിച്ച് ട്രാൻസ്ഫോർമർ ഇട്ട് ദീർഘനേരം സിമുലേറ്റ് ചെയ്യുക എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു ടിപ്പും നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് ലീനിയർ മോഡൽ ഉപയോഗിക്കാം ട്രാൻസ്ഫോർമർ സ്ഥിരതയിലേക്ക് പോകുന്നതിന്റെ മൂല്യങ്ങൾ എടുക്കുക തുടർന്ന് സ്റ്റേറ്റ് മൂല്യം പ്ലഗ് ഇൻ ചെയ്യുക നിങ്ങൾ ഹ്രസ്വകാല സിമുലേഷനുകൾക്കായി അവ ഉപയോഗിക്കുക എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സ്കീമാറ്റിക് ആണ് ഇത് പരീക്ഷിച്ചുനോക്കുക തുടർന്ന് വിവിധ തരംഗ രൂപങ്ങളുടെ ഉൾക്കാഴ്ചകൾ നേടാൻ ശ്രമിക്കുക സ്വിച്ച് മോണിറ്ററിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയും ഫ്ലൈബാക്ക് ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറിയിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയും നിരീക്ഷിക്കുക അവയെല്ലാം നമ്മുടെ സൈദ്ധാന്തിക കിഴിവുകൾക്കനുസൃതമാണെന്ന് കാണാൻ ശ്രമിക്കുക ഇത് കൂടാതെ ഡൌൺലോഡ് ചെയ്യാനുള്ള മൂല്യവും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്റെ കൈവശം m ഫയൽസും ഒരു ഫ്ലൈബാക്ക് ഡിസൈനും ഫോർവേഡ് ഡിസൈനുകളും ഇവിടെയുണ്ട് നമ്മൾ വിശദമായി ചർച്ച ചെയ്ത ഫോർവേഡ് ഡിസൈൻ പരീക്ഷിക്കുക തുടർന്ന് നിങ്ങൾക്ക് പോയി ഈ ഫ്ലൈബാക്ക് ഡിസൈൻ പരീക്ഷിക്കാം മൾട്ടി ഔട്ട്പുട്ടായ ജനറിക് ഫ്ലൈബാക്ക് കൺവെർട്ടർ ഡിസൈൻ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു m ഫയലായ ഡിസൈൻ സമവാക്യത്തിലൂടെ പോകാം നിങ്ങൾക്ക് ഒരുപക്ഷേ മൾട്ടി ഔട്ട്പുട്ടിൽ നിന്ന് സിംഗിൾ ഔട്ട്പുട്ടിലേക്ക് ഇൻപുട്ട് സ്പെസിഫിക്കേഷൻ മാറ്റാനും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ കാണാനും കഴിയും ഒരുപക്ഷേ അടുത്ത ആഴ്ചയിൽ ഡിസൈനിന്റെ മൾട്ടി ഔട്ട്പുട്ട് ഭാഗത്തെക്കുറിച്ചും മൾട്ടി ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമറുകൾ എങ്ങനെയായിരിക്കാമെന്നും ചർച്ച ചെയ്യും മൾട്ടി ഔട്ട്പുട്ട് പവർ സപ്ലൈസ് എങ്ങനെ കൈകാര്യം ചെയ്യാം ഇവിടെ മറ്റ് ചില m ഫയലുകളുണ്ട് ഒന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന വയറുകൾ ഡോട്ട് m ഫയൽ ആണ് ഒരു സാധാരണ വയർ ഗേജ് ടേബിൾ ഉണ്ട് ഞാൻ അവയെല്ലാം ഒരു ഫയലിൽ ചേർത്തു നിങ്ങൾ അവരെ തിരയേണ്ടതില്ല അതിനാൽ ഇത് സ്വയമേവ എക്സിക്യൂട്ട് ചെയ്യപ്പെടും ഇവയാണ് വയർ ഗേജുകൾ swg 45 44 ഡാറ്റാഷീറ്റുകളിൽ നിന്ന് ഞാൻ അവ തിരഞ്ഞെടുത്ത് ഇവിടെ ഇട്ടു തുടർന്ന് ചില കോറുകൾ ഇട്ടു ഇപ്പോൾ ഫെറൈറ്റ് പൊടിച്ച ഇരുമ്പ് അവ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും ഞാൻ അവയിൽ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ കുറച്ച് ബാർ കോറുകൾ ഇ കോറുകൾ യു കോറുകൾ എന്നിവ ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ ലഭ്യമായത് പോലെയുള്ളവ അവയിൽ ചേർക്കാം വ്യത്യസ്ത ഡാറ്റ ഷീറ്റുകൾ എടുത്ത് കൂടുതൽ തരം കോഡുകൾ ചേർക്കുക ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്ന ഒരു ടെംപ്ലേറ്റാണ് അതുപോലെ ഞാൻ മെറ്റലുകളും പൊടിച്ച ഇരുമ്പ് കോറും ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫോർവേഡ് കൺവെർട്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ ഒരു കണക്കുകൂട്ടലിനായി ഏരിയയിൽ നിന്ന് ഒരു കോഡ് തിരഞ്ഞെടുക്കുന്നതിന് ഡിസൈൻ സമവാക്യങ്ങൾ വരുമ്പോൾ ഈ m ഫയലുകളിലെ ഡാറ്റ ഇവയാണ് കാരണം അവ ഫംഗ്ഷനുകൾ ആയതിനാൽ അത് പുറത്തെടുക്കുകയും ഡിസൈൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും ഫോർവേഡ് കൺവെർട്ടറിനായി ഞാൻ ഒരു ഉദാഹരണം കാണിക്കും ഞാൻ ഒക്ടൽ തുറന്ന് ഈ ഡയറക്ടറിയിലേക്ക് മാറും ഈ ഫോർവേഡ് ഡിസൈൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് അണ്ടർസ്കോർ ഡിസൈൻ ഫോർവേഡ് ചെയ്ത് റിട്ടേൺ അമർത്തുക ഏത് കോർ മെറ്റീരിയലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അത് ചോദിക്കും ഞാൻ ഫെറൈറ്റ് എന്ന് പറയും എന്നിട്ട് നമുക്ക് നോക്കാം അത് വീണ്ടും വന്നാൽ ആദ്യത്തെ ആവർത്തനം ക്രോസ് ചെക്ക് ചെയ്യില്ല എന്നാണ് അർത്ഥമാക്കുന്നത് വയർ ക്രോസ് സെക്ഷൻ ഏരിയയിലേക്കുള്ള എല്ലാ നിബന്ധനകളും kwAw നേക്കാൾ കുറവാണെങ്കിൽ എല്ലാ നിബന്ധനകളും വിൻഡോ ഏരിയയിൽ ചേരണം ആ ക്രോസ് ചെക്ക് ഇല്ലെങ്കിൽ അത് പോയി കോറിന്റെ അടുത്ത വലുപ്പത്തിൽ എത്തും തുടർന്ന് വീണ്ടും കണക്കുകൂട്ടലിലേക്ക് വീണ്ടും നിങ്ങൾക്ക് കോർ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ അത് തിരഞ്ഞെടുക്കും പാർട്ട് കോർ അത് അടുത്ത വലുപ്പത്തിലേക്ക് പോകും അത് ശരിയായ മൂല്യം രൂപീകരിച്ചുകഴിഞ്ഞാൽ അത് ഒരു ഫയലിൽ ഇടുവാൻ നിങ്ങളോട് ആവശ്യപ്പെടും ഞാൻ ഇത് പരീക്ഷിക്കട്ടെ കൂടാതെ ടെക്സ്റ്റ് ഡോട്ട് എം ഞാൻ സേവ് ചെയ്യും കൂടാതെ സ്ക്രീനിൽ വിവിധ ഫലങ്ങൾ ഉണ്ടാകുന്നു നിങ്ങൾ ഈ ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ g എഡിറ്റ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുകയോ ചെയ്യും ഇത് ഒരു ഫോർവേഡ് കൺവെർട്ടർ സ്പെസിഫിക്കേഷനായിരിക്കും ഇവയാണ് സ്പെസിഫിക്കേഷൻ പ്രൈമറി VA സെക്കൻഡറി VA പോലെയുള്ള ഡിസൈനർ വേരിയബിൾ ഫോർവേഡ് കൺവെർട്ടറുകൾ ട്രാൻസ്ഫോർമർ സ്പെസിഫിക്കേഷനുകളാണ് ഇത് പോട്ട് കോർ 26 ബാർ 16 ടേണുകളുടെ എണ്ണം പ്രൈമറിക്കൊപ്പം തിരഞ്ഞെടുത്തിട്ടുണ്ട് ഡീമാഗ്നെറ്റൈസിംഗിലെ വയർ ചുറ്റുകളുടെ നമ്പറിന്റെ ഗേജ് എന്താണ് വയറിന്റെ ദ്വിതീയ ഗേജിലെ വയർ ടേണുകളുടെ ഗേജ് എന്താണ് പവർ സ്വിച്ച് റേറ്റിംഗ് ഡയോഡ് റേറ്റിംഗ് ഫ്രീ വീലിംഗ് ഡയോഡ് റേറ്റിംഗ് ഇൻഡക്റ്റർ ഡിസൈൻ അങ്ങനെ അങ്ങനെ മുഴുവൻ കൺവെർട്ടർ പവർ സപ്ലൈയും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഇത് ഒക്ടേവിൽ ചെയ്യാനുള്ള നല്ലൊരു ഉപകരണമാണ് ഇത് മാറ്റ് ലാബിലും പ്രവർത്തിക്കും ഞാൻ ഈ ടെക്സ്റ്റ് ഡോട്ട് ഫയൽ നീക്കം ചെയ്യും നിങ്ങൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്ത് പരീക്ഷിക്കാം ഞാൻ ഇത് അടയ്ക്കും ഞാൻ ഇവിടെ ഒരു സാമ്പിൾ ഡിസൈൻ സ്പെസിഫിക്കേഷൻ നൽകിയ ഫ്ലൈബാക്ക് ഡിസൈനിനും ഇത് ചെയ്യാൻ ശ്രമിക്കാം ഈ ഫോർവേഡ് കൺവെർട്ടർ ഡിസൈൻ എം ഫയൽ ഞാൻ തുറക്കട്ടെ ഇതിലേക്ക് പോകുന്നത് അടിസ്ഥാനപരമായി സ്പെസിഫിക്കേഷന്റെ ആദ്യ ഭാഗം Vce DC ലിങ്ക് ആയിരിക്കും ഇവിടെയുള്ള നാമമാത്രമായ DC ലിങ്ക് മിനിമം DC ലിങ്ക് പരമാവധി DC ലിങ്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ അറേകളിൽ ഒന്നിലധികം ഔട്ട്പുട്ടുകൾ എടുക്കാമെന്ന് സൂചിപ്പിക്കാം ∆V പീക്ക് ടു പീക്ക് ഔട്ട്പുട്ട് റിപ്പിൾ ഔട്ട്പുട്ട് കറന്റ് സ്വിച്ചിംഗ് ഫ്രീക്വൻസി d ഡ്യൂട്ടി സൈക്കിൾ J കറന്റ് ഡെൻസിറ്റി എന്നിങ്ങനെയുള്ള fs പോലെയുള്ള ഡിസൈനർ വേരിയബിൾ ഇൻഡക്റ്റൻസിനായി Kw ട്രാൻസ്ഫോർമറിറിന്റെ ഇൻഡക്ടൻസിനായി Kw ഇപ്പോൾ പവർ കണക്കുകൂട്ടൽ അനുപാതം കണക്കാക്കുന്നു നിങ്ങൾ ആദ്യം ഏരിയ പ്രോഡക്റ്റ് കണക്കാക്കുന്ന ഒരു ഡിസൈൻ രൂപപ്പെടുത്തുന്നു തുടർന്ന് അതിനുള്ളിൽ ഒരു ആവർത്തനമുണ്ട് അവിടെ വൈൻഡിംഗുകൾ അനുയോജ്യമാണോ എന്ന് പരിശോധിക്കും ചർച്ച ചെയ്ത ഈ കണക്കുകൂട്ടലുകളെല്ലാം ഒരു കോഡ് ഫോമിൽ ഇട്ടു തുടർന്ന് ഇൻഡക്ടർ ഡിസൈൻ വീണ്ടും ഇവിടെ അൽപ്പം ലൂപ്പിലേക്ക് പോകും ഊർജ്ജം ഉപയോഗിച് കോഡിന്റെ പ്രോഡക്റ്റ് വിസ്തീർണ്ണം കണക്കാക്കുന്നു ഇവിടെയാണ് ഊർജ്ജം ½LI2m കപ്പാസിറ്ററും അതിൽ അടങ്ങിയിരിക്കുന്ന ഔട്ട്പുട്ട് ഡയോഡും ഉൾക്കൊള്ളിക്കുന്നു അവസാനമായി ഫയലിലേക്ക് എഴുതേണ്ട ഔട്ട്പുട്ട് ഇത് ഒക്ടേവിൽ എഴുതിയ m ഫയലാണ് ഇത് MATLAB ൽ പ്രവർത്തിക്കും